ആശംസകളും സ്വാഗതവും മൊഡ്യൂൾ 3 ഭാഗം 14 പ്രബോധനത്തിൻ്റെ സിമുലേഷൻ സമീപനം മുമ്പത്തെ യൂണിറ്റിൽ നിർദ്ദേശങ്ങളോടുള്ള പരീക്ഷണാത്മക സമീപനം ഞങ്ങൾ മനസ്സിലാക്കി സിമുലേഷൻ ഉപയോഗിച്ച് നിർദ്ദേശത്തിന്റെ ഫലപ്രാപ്തി മനസ്സിലാക്കുക എന്നതാണ് ഈ യൂണിറ്റിന്റെ ലക്ഷ്യം എന്റെ നിർദ്ദേശം കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു സംവിധാനമായി ഞാൻ എങ്ങനെ സിമുലേഷൻ ഉപയോഗിക്കും സിമുലേഷനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ സിസ്റ്റം എന്ന പദം ഞങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഞങ്ങൾ അതിനെ ഔദ്യോഗികമായി ഇവിടെ നിർവചിക്കുന്നു ഒരു സിസ്റ്റം എന്നത് പരസ്പരം സംവദിക്കുന്ന അല്ലെങ്കിൽ പരസ്പരബന്ധിതമായ എന്റിറ്റികൾ കൂടാതെ അല്ലെങ്കിൽ വസ്തുക്കൾ ആളുകൾ അല്ലെങ്കിൽ ജീവികൾ ഒരു ഏകീകൃത മൊത്തത്തിൽ രൂപം കൊള്ളുന്ന ഒന്നാണ് ഒരു സിസ്റ്റത്തിന് അനന്തമായ നിർവചനങ്ങൾ ഉണ്ട് അവയിൽ മിക്കതും എല്ലാ സവിശേഷതകളും പിടിച്ചെടുക്കുന്നു എന്താണ് ഈ സവിശേഷതകൾ ചില വസ്തുക്കളുടെയോ എന്റിറ്റികളുടെയോ ഒരു കൂട്ടം ഉണ്ട് ഒരു എന്റിറ്റി ചില ഭൌതിക വസ്തുക്കളാകാം വ്യക്തികൾ അല്ലെങ്കിൽ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന എന്റിറ്റികളാകാം നമ്മൾ പാരിസ്ഥിതിക വ്യവസ്ഥ സംസാരിക്കുകയാണെങ്കിൽ വ്യക്തമായും ജീവികളും ചിത്രത്തിലേക്ക് വരും അവ കേവലം എന്റിറ്റികളുടെ ശേഖരം മാത്രമല്ല അവ ഒരു ഉദ്ദേശ്യത്തിനായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഈ റെക്കോർഡിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാല് ആളുകൾ പരസ്പരം സംക്ഷിപ്തമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം ഒരാൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കുറിപ്പുകൾ തയ്യാറാക്കുന്നു മറ്റൊരാൾ ക്യാമറ പ്രവർത്തിപ്പിക്കുന്നു മറ്റൊരാൾ രണ്ട് സ്ട്രീമുകളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ സംയോജിപ്പിച്ച് റെക്കോർഡുചെയ്യുന്നു എല്ലാ ഘടകങ്ങളും അതായത് നാല് വ്യക്തികൾ പരസ്പരബന്ധിതവും റെക്കോർഡുചെയ്യുന്നതുമായ ഒരു തരം സംവിധാനമാണിത് ഇത് സിസ്റ്റത്തിന്റെ ഒരു നിർവചനം വിശദീകരിക്കുന്നു ഒരു സിസ്റ്റത്തെ അതിന്റെ സ്പേഷ്യൽ ടെമ്പറൽ അതിരുകളാൽ നിർവചിച്ചിരിക്കുന്നു പരിസ്ഥിതി അവയെ സ്വാധീനിക്കുകയും വളയുകയുംപ്പെട്ട് ചെയ്യത് അതിന്റെ ഘടനയും ലക്ഷ്യവും വിവരിച്ച് അതിന്റെ പ്രവർത്തനത്തിൽ ആവിഷ്ക്കരിക്കുകയും ചെയ്യുന്നു ഈ ഘടകങ്ങളെല്ലാം മുകളിൽ നൽകിയ ഉദാഹരണത്തിന് ബാധകമാണ് സ്പേഷ്യൽ ടെമ്പറൽ അതിരുകളാൽ ഇത് നിർവചിക്കപ്പെടുന്നു സ്പേഷ്യൽ അതിർത്തി അത് അവതരിപ്പിക്കുന്ന മുറിയാണ് മറ്റൊന്ന് കൺട്രോൾ റൂം കൂടാതെ 30 മുതൽ 45 മിനിറ്റ് വരെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സംഭവിക്കാൻ ക്രമീകരിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ടെമ്പറൽ അതിർത്തി നമ്മൾ ചെയ്യുന്നതെന്തും അതിന്റെ പരിസ്ഥിതി ഏത് തരം മുറി ലൈറ്റിംഗ് ഒരു തരം ഫർണിച്ചറുകൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ ആക്സസ് ഉണ്ട് തുടങ്ങിയവയെ സ്വാധീനിക്കുന്നു

അതിന്റെ ഒരു ഘടനയും ലക്ഷ്യവും പ്രവർത്തനത്തിൽ പ്രകടിപ്പിക്കുന്നു അതിനർത്ഥം ബന്ധപ്പെട്ട എല്ലാ ആളുകളും അവർ തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധത്തെ അംഗീകരിക്കുന്നു എല്ലാവരും ഒരേ ഉദ്ദേശ്യം പങ്കിടുന്നു ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു പ്രഭാഷണം റെക്കോർഡുചെയ്യുകയും അത് ഒരു കോഴ്സിന്റെ ഭാഗമാക്കുകയുമാണ് ലക്ഷ്യം അങ്ങനെയാണ് ഒരാൾക്ക് സിസ്റ്റം പരിഗണിക്കാൻ കഴിയുക എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളുടെ കാര്യത്തിൽ അവയിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സർക്യൂട്ടുകൾ ഒരു സിവിൽ ഘടന ഒരു എഞ്ചിൻ ഒരു വിമാനം ഒരു ഫാക്ടറി ഒരു പവർ സ്റ്റേഷൻ ഒരു ഇലക്ട്രിക് പവർ ഗ്രിഡ് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഒരു കോർപ്പറേറ്റ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ചില സിസ്റ്റങ്ങളിൽ ഭൌതിക ഘടകങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ചിലതിൽ വ്യക്തികളും മെഷീനുകളും ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് എനിക്ക് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് നോക്കാൻ കഴിയും ഒരു വ്യക്തിയുടെ പങ്ക് അത് മനസിലാക്കുകയോ വിശകലനം ചെയ്യുകയോ ആണ് പക്ഷേ അവൻ ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ല അതേസമയം നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് ധാരാളം സാങ്കേതികവിദ്യ മുറികൾ കമ്പ്യൂട്ടറുകൾ ചില നിയമങ്ങൾ തുടങ്ങിയവയുണ്ട് അതിലുള്ള ആളുകളിൽ അഡ്മിനിസ്ട്രേറ്റർമാർ ഫാക്കൽറ്റി വിദ്യാർത്ഥികൾ എല്ലാവരും പരസ്പരം സംവദിക്കുന്നു അതിനാൽ എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരു എഞ്ചിനീയറിംഗ് സംവിധാനമായി പരിഗണിക്കണമെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് മാതൃകയാക്കേണ്ടതുണ്ട് അത്തരം സിസ്റ്റങ്ങൾക്ക് വ്യത്യസ്ത മോഡലിംഗ് രീതികൾ ലഭ്യമാണ് സിമുലേഷൻ നിലവിലുള്ള അല്ലെങ്കിൽ നിർദ്ദിഷ്ട സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ അനുകരിക്കുന്ന ഒരു ആനിമേറ്റഡ് മോഡലാണ് സിമുലേഷൻ എനിക്ക് ഒരു മോഡൽ സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനുശേഷം ഞാൻ അതിൻ്റെ മോഡലിനെ സിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും അങ്ങനെ നിലവിലുള്ള സിസ്റ്റത്തിന്റെ പ്രവർത്തനം അനുകരിക്കപ്പെടും ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ നിലവിലുള്ള ഒരു സർക്യൂട്ടിന്റെ പ്രവർത്തനം ഞാൻ അനുകരിക്കുന്നു അതിനായി എനിക്ക് സർക്യൂട്ടിന്റെ ഘടകങ്ങളുടെ ഒരു മാതൃക ആവശ്യമാണ് മറ്റൊരു ഉദാഹരണം ഒരു പുതിയ കെട്ടിടം സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നിലവിലുള്ള സിസ്റ്റത്തേക്കാൾ ഒരു നിർദ്ദിഷ്ട സിസ്റ്റമാണ് മോഡലിംഗും സിമുലേഷനും സൂചിപ്പിക്കുന്നത് ഒരു റിഡക്റ്റീവ് കമ്പ്യൂട്ടേഷണൽ പ്രാതിനിധ്യം ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ സ്വഭാവം പ്രകടമാക്കുന്ന അല്ലെങ്കിൽ പ്രവചിക്കുന്ന പ്രക്രിയകളുടെ സംയോജനത്തെയാണ് എനിക്ക് മോഡൽ ചെയ്യേണ്ട എന്തെങ്കിലും അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാ ഘടകങ്ങളും അവയുടെ പരസ്പര ബന്ധങ്ങളും എനിക്ക് മാതൃകയാക്കേണ്ടതുണ്ട് ചെയ്ത മോഡലിംഗിനോട് ഞങ്ങൾ യോജിക്കണം അതിനുശേഷം മാത്രമേ ഞങ്ങൾ ഇത് അനുകരിക്കുകയുള്ളൂ ഞങ്ങൾ ഇത് അനുകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടിൽ ഞങ്ങൾ സംതൃപ്തരാകാം അല്ലെങ്കിൽ ഘടകങ്ങൾക്കായി ഞങ്ങൾ ഉപയോഗിച്ച മോഡലുകൾ അവലോകനം ചെയ്യുമ്പോൾ അവ തൃപ്തികരമല്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയേക്കാം ഞങ്ങൾ തിരികെ പോയി അവയടെ മോഡലുകൾ വീണ്ടും ക്രമീകരിക്കുന്നു മോഡലിംഗ് സിമുലേഷൻ പ്രക്രിയകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ചില സമയങ്ങളിൽ പരസ്പരം മാറ്റി ഉപയോഗിക്കാറുണ്ട് മോഡലിംഗ് സിസ്റ്റങ്ങളുടെ ഒരു മാർഗ്ഗമായി എനിക്ക് മുഴുവൻ സിമുലേഷനെയും പരാമർശിക്കാൻ കഴിയും ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ മോഡലിംഗും സിമുലേഷൻ കഴിവുകളും ഉപകരണങ്ങളും ഞങ്ങൾ നേരത്തെ പര്യവേക്ഷണം ചെയ്ത വ്യത്യസ്തവും സംയോജിതവുമായ ചിന്ത എന്ന് വിളിക്കുന്നതിനെ സമന്വയിപ്പിക്കുന്നതിന് കൂടുതൽ പിന്തുണയ്ക്കാൻ കഴിയും അപ്പോഴാണ് ഞങ്ങൾ കേന്ദ്രാഭിമുഖമായ ഒരു പരിഹാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുമ്പോൾ വ്യത്യസ്ത ചിന്തകൾക്കായി ഞങ്ങൾ സിമുലേഷൻ ഉപയോഗിക്കുന്നു ബിരുദധാരികൾ ജോലി ചെയ്യാൻ പോകുന്ന ആധുനിക എഞ്ചിനീയറിംഗ് ജോലിസ്ഥലങ്ങൾ സിസ്റ്റങ്ങളുടെ വിശകലനത്തിനും രൂപകൽപ്പനയ്ക്കും സഹായിക്കുന്നതിന് മോഡലിംഗ് സിമുലേഷൻ പരിശീലനങ്ങളും കമ്പ്യൂട്ടേഷണൽ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഇലക്ട്രോണിക് വിജ്ഞാനശാഖയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഒരു ചിപ്പ് ഐസി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യേണ്ട ഒരു കമ്പനിയിൽ ജോലിചെയ്യുന്നുവെങ്കിൽ അവർ ഇലക്ട്രോണിക് രീതിയിൽ മാതൃകയാക്കുന്നു ഈ ദിവസങ്ങളിൽ ബ്രെഡ്ബോർഡ് പോലെ ഒന്നുമില്ല സിമുലേഷൻ നടത്തുക ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളുടെ ഒരു കൂട്ടം മോഡലുകൾ ഘടക ലൈബ്രറിയിൽ ലഭ്യമാണ് ആവശ്യമായ ഫംഗ്ഷനെ ആശ്രയിച്ച് ലൈബ്രറിയിൽ നിന്ന് ഘടകങ്ങൾ വരച്ച് സ്ക്രീനിൽ ഇടുക തുടർന്ന് ഒരു സ്പൈസ് പ്രോഗ്രാമിന് സമാനമായ ഒന്ന് ഉപയോഗിച്ച് അവ പരസ്പരം ബന്ധിപ്പിക്കാൻ ആരംഭിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മോഡൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു ചിലപ്പോൾ സർക്യൂട്ടുകൾ വളരെ സങ്കീർണ്ണമാണ് ശക്തമായ കമ്പ്യൂട്ടറിനൊപ്പം ഒരു സിമുലേഷൻ റൺ അര ദിവസമെടുക്കും സംയോജിത സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള പ്രാഥമിക രീതി സിമുലേഷനിലൂടെയാണ് സർക്യൂട്ടിന്റെ വിവിധ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ആളുകൾ ഉത്തരവാദികളായിരിക്കാം ഇത് എല്ലാം ഒരുമിച്ച് ചേർക്കണം മോഡലിംഗ് സിമുലേഷൻ കഴിവുകൾ എന്നിവയുടെ ഫലമായി അനേകം സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ വിശകലന ഉപകരണങ്ങളായി സംയോജിപ്പിച്ചിരിക്കുന്നു അതായത് ഘടകങ്ങൾ ഒരുമിച്ച് ചേർക്കാനും അനുകരിക്കാനും നിങ്ങൾ ആ മോഡലുകൾ ഉപയോഗിക്കുന്ന രീതി ഇപ്പോൾ എല്ലാ ബിരുദധാരികൾക്കും ആവശ്യമായ നൈപുണ്യമാണ് ഈ ഉപകരണങ്ങൾ സങ്കീർണ്ണമായ പ്രതിഭാസങ്ങളുടെ പഠനത്തെ പിന്തുണയ്ക്കുന്നു മാത്രമല്ല പ്രവചന ഉപകരണങ്ങൾ എന്ന നിലയിൽ ഒരു പുതിയ രൂപകൽപ്പനയുടെ അനുയോജ്യത അവർക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യണമെങ്കിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാബ്രിക്കേഷന് മുമ്പ് സിമുലേഷനിലൂടെ ഡിസൈനിന്റെ അനുയോജ്യത അന്വേഷിക്കുക അതിനാൽ ഇന്നത്തെ സിമുലേഷൻ ഏറ്റവും ഫലപ്രദമാണ് തീരുമാനമെടുക്കുന്നതിന് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനം വാഗ്ദാനം ചെയ്യുന്നു ഒപ്പം നടപടിക്രമ മാറ്റങ്ങളുടെ അനന്തരഫലം പരിശോധിക്കുന്നതിന് വെർച്വൽ പ്രാതിനിധ്യം ഉപയോഗിക്കുകയും പ്രധാനമായും അങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ എന്ന സാഹചര്യവും ഞാൻ ഈ പാരാമീറ്റർ ഈ രീതിയിൽ മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ ചില നിർണായക മൂല്യങ്ങളുടെ വളരെ അടുത്തെത്തിയോ ഞാൻ എത്ര ദൂരം പോകണം സിമുലേഷനിലൂടെയും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതെല്ലാം കൂടുതൽ പാരാമീറ്ററുകൾ ഉണ്ടെങ്കിൽ സിമുലേഷനിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട് എല്ലാ ഫലങ്ങളും ശേഖരിച്ച് നിങ്ങൾ നടപ്പിലാക്കേണ്ടത് പാരാമീറ്ററുകളുടെ ഏറ്റവും മികച്ച വ്യാഖ്യാനമാണ് മോഡലിംഗും സിമുലേഷനും സംബന്ധിച്ച് ബിരുദധാരികളിൽ നിന്ന് വ്യവസായം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഒരു പഠനം നടത്തി ആ കമ്മിറ്റി ഉപയോഗിക്കുന്ന വാക്കുകളാണിത് "പ്രവർത്തനപരവും ആശയപരവുമായ തലത്തിൽ പ്രശ്നങ്ങൾ വിശദീകരിക്കാനും പരിഹരിക്കാനും ബിരുദധാരിയ്ക്ക് കഴിയണം " ഇത് പ്രവർത്തനപരവും ആശയപരവുമായ തലങ്ങളാണെന്നത് ശ്രദ്ധിക്കുക ഭൌതികവും വെർച്വൽ ലോകങ്ങളും തമ്മിൽ വിവരിക്കുന്നു എനിക്ക് ഒരു വെർച്വൽ ലോകം സൃഷ്ടിക്കാൻ കഴിയണം ഞാൻ ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ എന്റെ സർക്യൂട്ട് ഇപ്പോൾ ഒരു സ്പൈസ് പ്രോഗ്രാം ആണ് കൂടാതെ ഒരു ഏജൻസിയിൽ നിന്ന് നിർമ്മിച്ച സർക്യൂട്ട് ഒരുമിച്ച് നിർത്തുന്ന പ്രോട്ടോടൈപ്പ് ലഭിക്കുമ്പോൾ ഭൌതിക ലോകം അന്തിമ സർക്യൂട്ട് ആയിരിക്കും ഞാൻ അനുകരിക്കുമ്പോൾ ഞാൻ ഡാറ്റ ശേഖരിക്കും ഡാറ്റ പല രൂപത്തിൽ ലഭ്യമായേക്കാം ആ വിവരങ്ങളിൽ നിന്ന് എനിക്ക് അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയും ആ വിവരങ്ങൾ മറ്റുള്ളവരുമായി അർത്ഥവത്തായ രീതിയിൽ ആശയവിനിമയം നടത്തുക വ്യവസായത്തിന്റെ ആവശ്യകതകളിൽ ഒന്നാണിത് ഒന്നിലധികം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടേഷണൽ സിസ്റ്റങ്ങൾ മനസിലാക്കുക വ്യത്യസ്ത തരത്തിലുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്കായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത സോഫ്റ്റ്വെയർ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ബിരുദധാരി അറിഞ്ഞിരിക്കണം വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക ബിസിനസ്സ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് തൽക്ഷണ സന്ദേശമയയ്ക്കലിനൊപ്പം സഹകരണ ഉപകരണങ്ങളുണ്ട് വ്യവസായ വിദഗ്ധരുടെ പ്രസ്താവനകളാണിത് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എങ്ങനെ വിവർത്തനം ചെയ്യും വ്യവസായ പ്രതീക്ഷകളെ പഠന ഫലങ്ങളിലേക്ക് എങ്ങനെ വിവർത്തനം ചെയ്യുന്നുവെന്ന് ധാരാളം ഫാക്കൽറ്റികളോട് ചോദിച്ചു കാരണം നാമെല്ലാവരും ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ അവ പഠന ഫലങ്ങളിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ടോ കുറച്ച് ആളുകൾ ഒത്തുചേർന്നു അടിസ്ഥാന ഭൌതിക തത്ത്വങ്ങൾ അല്ലെങ്കിൽ ഉപകരണ സാമഗ്രികളുടെ പെരുമാറ്റരീതികൾ മറ്റ് കരകൌശല വസ്തുക്കൾ എന്നിവ എല്ലാ വാക്കുകളും ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സിലെ അധ്യാപകർക്ക് നേരിട്ട് അർത്ഥമാക്കുമെന്ന് ഞാൻ കരുതുന്നു സിമുലേഷനുകൾ ഉപയോഗിച്ച് തിരിച്ചറിയാനും വിവരിക്കാനും വിദ്യാർത്ഥിക്ക് കഴിയുമെന്ന് അവർ പറഞ്ഞു എഞ്ചിനീയറിംഗ് ഡിസൈൻ ജോലികൾ ചെയ്യുന്നതിന് മോഡലിംഗ് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കുകൾ പ്രയോഗിക്കുന്നതിന് സിമുലേഷനുകൾ നിർമ്മിക്കുക ഉപകരണങ്ങളുടെ തത്ത്വങ്ങളും പെരുമാറ്റങ്ങളും വിവരിക്കാനും തുടർന്ന് സിമുലേഷൻ ഉപയോഗിക്കാനും അവ പരസ്പരം ബന്ധിപ്പിക്കാനും യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ നിർവ്വഹിക്കുന്നതിന് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കുകൾ ഉപയോഗിക്കാനും ഒരാൾക്ക് കഴിയണം ഫാക്കൽറ്റി പഠന ഫലങ്ങളിലേക്ക് ഇവ വിവർത്തനം ചെയ്യുന്നു നിങ്ങളുടെ സൌകര്യത്തിന് അനുസൃതമായി നിങ്ങൾക്ക് അവ ചെറുതായി വിശദീകരിക്കാൻ കഴിയും പക്ഷേ ഇത് പ്രബോധനത്തോടുള്ള അനുകരണ സമീപനത്തിന്റെ ലക്ഷ്യമാണ് ആധുനിക ഉപകരണ ഉപയോഗത്തെക്കുറിച്ച് എൻബിഎ നൽകിയ പ്രോഗ്രാം ഫലം 5 നോക്കിയാൽ ഇത് എബിഇടി പറയുന്നതിനു സമാനമാണ് ഉചിതമായ സാങ്കേതിക വിദ്യകൾ വിഭവങ്ങൾ ആധുനിക എഞ്ചിനീയറിംഗ് പരിമിതികളെക്കുറിച്ച് മനസിലാക്കിക്കൊണ്ട് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളിലേക്ക് പ്രവചനവും മോഡലിംഗും ഉൾപ്പെടെയുള്ള ഐടി ഉപകരണങ്ങൾ എന്നിവ സൃഷ്ടിക്കുക തിരഞ്ഞെടുക്കുക പ്രയോഗിക്കുക ഇതിൽ നിരവധി ഘടകങ്ങളുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഘടകങ്ങളെയും അഭിസംബോധന ചെയ്യാൻ കഴിയില്ല ഇവിടെ ഞങ്ങൾ സൃഷ്ടിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു ഉചിതമായ സാങ്കേതികത പ്രയോഗിക്കുകയാണ് ചില എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിന്റെ സ്വഭാവം മാതൃകയാക്കാനും പ്രവചിക്കാനും ഉപയോഗിക്കുന്ന ഒരു സിമുലേഷൻ ഉപകരണം അത്രത്തോളം സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ മനസിലാക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനുമുള്ള ആധുനിക ഉപകരണങ്ങളിലൊന്നാണ് സിമുലേഷൻ പരിഹാരം ട്രയലിലൂടെയും പിശകുകളിലൂടെയും ആയിരിക്കാം ഒരു ഘടകത്തെ മറ്റൊന്നിലൂടെ മാറ്റിസ്ഥാപിക്കുക അല്ലെങ്കിൽ മൂലകങ്ങളുടെ മാതൃകകൾ വീണ്ടും സൃഷ്ടിക്കുക തുടങ്ങിയവ എല്ലാ ആവശ്യങ്ങൾക്കും അവസരങ്ങൾക്കുമായി എത്ര ഓപ്പൺ സോഴ്സ് പ്രൊപ്രൈറ്ററി സിമുലേഷൻ ഉപകരണങ്ങൾ ലഭ്യമാണ് നിലവിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പലതും മാറ്റ്ലാബ് സ്പൈസ് മുതലായ ചില സിമുലേഷൻ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് പല സിമുലേഷൻ ഉപകരണങ്ങൾക്കും മികച്ച അവതരണവും വിഷ്വലൈസേഷൻ സവിശേഷതകളും ഉണ്ട് ആദ്യകാലങ്ങളിൽ ചിലത് ഇത് ഇല്ലായിരുന്നു എന്നാൽ ഇന്നത്തെ ലഭ്യമായ സിമുലേഷൻ ഉപകരണങ്ങൾക്ക് മികച്ച വിഷ്വലൈസേഷൻ സവിശേഷതകളുണ്ട് അതായത് അന്തിമ ഔട്ട്പുട്ട് വളരെ ഉപയോക്തൃ സൌഹാർദ്ദപരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും അതുവഴി ഈ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നു നിങ്ങൾ സൃഷ്ടിച്ച വെർച്വൽ ലോകത്തിന്റെ ഭാഗമാണെന്ന അർത്ഥത്തിൽ പഠന അനുഭവത്തെ വളരെയധികം അർത്ഥവത്തായതും ആഴത്തിലുള്ളതാക്കുന്നതും സിമുലേഷന് കഴിയും നമുക്ക് എവിടെയാണ് സിമുലേഷൻ ഉപയോഗിക്കാൻ കഴിയുക ഒന്നോ അതിലധികമോ സ്വതന്ത്രവേരിയെബളുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പാരാമീറ്ററൈസ്ഡ് ബീജഗണിത ബന്ധം പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റിക് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് നമുക്ക് പറയാം സിസ്റ്റം ഒരു തരം ബോക്സാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടും ഉണ്ട് കൂടാതെ ബന്ധം ലഘൂകരിക്കാവുന്നതുമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അടച്ച രൂപത്തിലുള്ള പരിഹാരം കാണാൻ കഴിയും എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് പാരാമീറ്ററുകൾ മാറ്റിക്കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക എന്നതാണ് ഇത് എങ്ങനെ കാണപ്പെടും ഞാൻ ഒരുതരം ഗ്രാഫിക് ഔട്ട്പുട്ടിൽ പ്രവേശിച്ചില്ലെങ്കിൽ പാരാമീറ്ററുകൾ മാറ്റുന്നതിന്റെ ഫലത്തെ എനിക്ക് വിലമതിക്കാനാവില്ല നമുക്ക് ഒരു ലളിതമായ ഉദാഹരണം നോക്കാം ഒരു ചെബിഷെവ് അല്ലെങ്കിൽ ഇക്വി റിപ്പിൾ ഫംഗ്ഷന് ഒരു ഫിൽട്ടറിന്റെ ബോക്സ് പോലുള്ള സ്വഭാവത്തെ ഏകദേശം കണക്കാക്കാൻ കഴിയും ഒരു നിശ്ചിത ശ്രേണിയിലുള്ള ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഘടകങ്ങളെ ഒരു ഫിൽട്ടർ നിരസിക്കുകയും തിരിച്ചറിഞ്ഞ ബാൻഡിന്റെ ഭാഗമായ സിഗ്നൽ മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്നു ഔട്ട്പുട്ടിന്റെ വ്യാപ്തി ലളിതമായ ഒരു സമവാക്യമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇത് ഒരു രണ്ടാമത്തെ ഓർഡർ ഫംഗ്ഷനാണ് കാരണം സ്ക്വയർ റൂട്ട് ഉണ്ട് ഒമേഗ ഇൻപുട്ട് വേരിയബിൾ ആണ് K1 K2 എന്നിവ രണ്ട് പാരാമീറ്ററുകളാണ് K2 പോസിറ്റീവ് ആണെന്നും K1 K2 ആണെന്നും നമുക്ക് അനുമാനിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇനി ഒരു പരാമീറ്റർ മാത്രം നോക്കുന്നതിനും T ഇക്വൽടൂ 1 ω ഇക്വൽടൂ 1 എന്നതിനും കാരണമാകാം T പാസ്ബാൻഡിലെ പ്രത്യേക മൂല്യങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തും ε ൻ്റെ സംജ്ഞയിലാണ് ബന്ധം ദ്യോതിപ്പിച്ചിരിക്കുന്നത് ε1 എന്നത് പാസ്ബാൻഡിലെ ഏറ്റവും ഉയർന്ന പരിമാണം ആണ് ഈ പരമാവധി എന്തായിരിക്കണമെന്ന് ഞാൻ വ്യക്തമാക്കുന്നു അത് എപ്സിലോൺ എന്ന് പ്രസ്താവിക്കുന്നു വ്യത്യസ്ത എപ്സിലോണുകൾക്കുള്ള K2 എന്താണെന്ന് ഞാൻ കണക്കാക്കുന്നു ഞാൻ K2 കണക്കുകൂട്ടിയാൽ K1 യാന്ത്രികമായി തീരുമാനിക്കും K2 K1 ന് തുല്യമായ ഒരു സാഹചര്യം എനിക്കുണ്ട് വ്യത്യസ്ത എപ്സിലോണുകൾക്കായി ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്ന ഗ്രാഫ് എന്ന ലളിതമായ ഓപ്പൺ സോഴ്സ് ഉപകരണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് താൽപ്പര്യമുള്ള സ്വഭാവം എനിക്ക് കാണാൻ കഴിയും അത് ഔട്ട്പുട്ട് 1 ൽ നിന്ന് വീഴുന്ന റേറ്റാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ റേറ്റിൻ്റെ പതനവേഗം കൂടും തോറും പാസ്ബാൻഡിലെ റിപ്പിൾ കൂടും ഉയരത്തിൽ വീഴുന്നു ഇതുപോലെ ഈ ഗ്രാഫിക്കൽ രൂപത്തിലുള്ള ഔട്ട്പുട്ട് നോക്കുമ്പോൾ എനിക്ക് അർത്ഥമുണ്ടാകും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രാഥമികമായ അനുകരണമാണിത് ഈ ഫംഗ്ഷന് പകരം എനിക്ക് എന്തും വയ്ച്ച് പ്ലോട്ട് ചെയ്യാൻ കഴിയും നമുക്ക് അടുത്ത ലെവൽ നോക്കാം പ്രായോഗികമായി എല്ലാ എഞ്ചിനീയറിംഗ് സിസ്റ്റങ്ങളും ചലനാത്മക സ്വഭാവമുള്ളവയാണ് ഒരു ഡൈനാമിക് സിസ്റ്റത്തിൽ ഓപ്പൺ ലൂപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് മോഡിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന നിരവധി ചലനാത്മക ഘടകങ്ങൾ അല്ലെങ്കിൽ സബ്സിസ്റ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിനർത്ഥം പരസ്പരബന്ധിതമായ നിരവധി ബോക്സുകൾ എനിക്ക് പരിഗണിക്കാം ഓരോ ബോക്സും ഒരു ഘടകമാണ് ചിലപ്പോൾ ഒരു സ്റ്റാറ്റിക് ഘടകം അല്ലെങ്കിൽ ചലനാത്മക ഘടകം എല്ലാ ചലനാത്മക ഘടകങ്ങളുടെയും ഗണിത മാതൃകകൾ ആദ്യം വികസിപ്പിച്ചെടുക്കുന്നു സാധാരണയായി ഒരു ചലനാത്മക ഘടകത്തെ ഡിഫറൻഷ്യൽ സമവാക്യമായി വിശേഷിപ്പിക്കാം ആരംഭിക്കുന്നതിന് ഞങ്ങൾ അതിനെ ലീനിയർ നോർമൽ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ എന്ന് വിളിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സങ്കീർണ്ണമായ ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളെ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളായി അല്ലെങ്കിൽ ഭാഗിക ഡിഫറൻഷ്യൽ സമവാക്യങ്ങളായി മാതൃകയാക്കേണ്ടതുണ്ട് ആദ്യത്തേത് ഞാൻ നോക്കുന്ന ഘടകങ്ങൾക്ക് ചലനാത്മക സ്വഭാവമാണ് അവയുടെ മോഡലുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് എനിക്ക് ഇത് ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനായി നൽകാൻ കഴിയും പരിഗണനയിലുള്ള സിസ്റ്റം സൃഷ്ടിക്കുന്നതിന് അവ പരസ്പരം ബന്ധിപ്പിക്കാം കൂടാതെ ചലനാത്മക സിസ്റ്റങ്ങളുടെ സ്വഭാവം അനുകരിക്കാനും പഠിക്കാനും മാറ്റ്ലാബ് അല്ലെങ്കിൽ സൈലാബ് പോലുള്ള സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം പല കോളേജുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് വാസ്തവത്തിൽ ഇത് ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ ഇന്റർകണക്ഷനുകൾ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പാരാമീറ്ററുകൾ മാറ്റാൻ ആരംഭിക്കുമ്പോൾ സിസ്റ്റത്തിന്റെ സ്വഭാവം പര്യവേക്ഷണം ചെയ്യാൻ വിദ്യാർത്ഥികളോട് ഒരു സംവേദനാത്മക രീതിയിൽ ആവശ്യപ്പെടുക രണ്ട് ഉപകരണങ്ങൾക്കും മികച്ച വിഷ്വലൈസേഷൻ സവിശേഷതകളുണ്ട് ഔട്ട്പുട്ട് സ്വഭാവം ഉപരിതലങ്ങളോ വളവുകളോ ആയി കണക്കാക്കാം പരിഗണനയിലുള്ള സിസ്റ്റത്തിന് ഒന്നിലധികം ഫീഡ്ബാക്ക് ലൂപ്പുകൾ ഉള്ളപ്പോൾ സിമുലേഷൻ ശരിക്കും നിങ്ങളുടെ സഹായത്തിലേക്ക് വരുന്നു കൂടാതെ സിമുലേഷൻ ഉപയോഗിക്കാതെ സിസ്റ്റം സ്വഭാവത്തെക്കുറിച്ച് ഒരു അറിവ് വളർത്തുക പ്രയാസമാണ് നിരവധി ഫീഡ്ബാക്ക് ലൂപ്പുകളുള്ള ഒരു സിസ്റ്റത്തിന്റെ സ്വഭാവം പ്രവചിക്കാൻ എങ്ങനെയെങ്കിലും മനുഷ്യർ അത്ര മിടുക്കരല്ള എന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സിമുലേഷനായുള്ള പല ഉപകരണങ്ങളും ഡൊമെയ്ൻ നിർദ്ദിഷ്ടമാണ് ഉദാഹരണത്തിന് ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ പഠനത്തിനും രൂപകൽപ്പനയ്ക്കും സ്പൈസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഉപകരണങ്ങളായ മൈക്രോകാപ്പ് ടിന ടിനാറ്റി എന്നിവ ഉപയോഗിക്കുന്നു സിസ്റ്റങ്ങളുടെ പൊതു ഊർജ്ജ ഘടന പിടിച്ചെടുക്കുന്നതിനുള്ള വ്യക്തമായ ഗ്രാഫിക് ഉപകരണമാണ് ബോണ്ട് ഗ്രാഫ് പവർ ഹൈഡ്രോളിക്സ് മെക്കാട്രോണിക്സ് ജനറൽ തെർമോഡൈനാമിക് സിസ്റ്റങ്ങൾ ഇലക്ട്രോണിക്സ് കൂടാതെ നോൺ എനർജിക് സിസ്റ്റങ്ങളായ ഇക്കണോമിക്സ് ക്യൂയിംഗ് തിയറി എന്നിവ പഠിക്കുന്നതിനും ഈ മോഡലിംഗ് രീതി ഉപയോഗിക്കുന്നു മാറ്റ്ലാബിലോ സിമുലിങ്കിലോ നിർമ്മിച്ച ഗ്രാഫിക്കൽ തെർമൽ സിസ്റ്റം മോഡലിംഗും സിമുലേഷൻ പാക്കേജുമാണ് TSAT തെർമൽ സിസ്റ്റംസ് അനാലിസിസ് ടൂൾബോക്സ് ഇത് പക്ഷേ പ്രത്യേകിച്ചും തെർമൽ സംവിധാനങ്ങൾക്കായി മാറ്റ്ലാബിന്റെയും സിമുലിങ്കിന്റെയും മുകളിൽ നിർമ്മിച്ച ഒരു തരം ആണ് താപ സംവിധാനങ്ങളെ മോഡലിംഗ് ചെയ്യുന്നതിനുള്ള മറ്റ് ഉപകരണങ്ങൾ Flo Therm ANSYS ABAQUS എന്നിവ പോലുള്ള മറ്റ് പ്രത്യേക സംവിധാനങ്ങളാണ്

TINATIit ലെ സിമുലേഷൻ എങ്ങനെ കാണാമെന്ന് നോക്കാം ഉദാഹരണത്തിന് ഇവിടെ ഞങ്ങൾ ഫ്രീക്വൻസി ലോക്ക് ലൂപ്പ് പഠിക്കാൻ ശ്രമിക്കുന്നു FLL ന് ഒരു VCO വോൾട്ടേജ് നിയന്ത്രിത ഓസിലേറ്റർ ലീനിയർ അല്ലാത്ത ഒരു ഫേസ് ഡിറ്റക്ടർ എന്നിവ ഉണ്ടാകും ഇവിടെ നമുക്ക് ഫേസ് ഡിറ്റക്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് രണ്ട് ഇൻപുട്ട് സിഗ്നലുകൾക്കിടയിലുള്ള ഫേസിന് ആനുപാതികമാണ് മുകളിൽ അവതരിപ്പിച്ച FLL സ്ക്വയർ വേവ് സിഗ്നലുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇൻപുട്ട് ഒരു സൈൻ തരംഗമാണെങ്കിൽ നിങ്ങൾ അതിനെ ഒരു ചതുര തരംഗമാക്കി മാറ്റുന്നു കൂടാതെ ഡയോഡ് ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിച്ച് ഔട്ട്പുട്ട് വീണ്ടും സൈൻ തരംഗമായി പരിവർത്തനം ചെയ്യുന്നു അതിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന നിരവധി പാരാമീറ്ററുകൾ ഉണ്ട് കൂടാതെ ഉപയോഗിച്ച ഉപകരണങ്ങൾക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയറുകൾ അവരുടേതായ പരിമിതികളുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഫ്രീക്വൻസി ശ്രേണിയിൽ മുഴുവൻ സർക്യൂട്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം അല്ലാത്തപക്ഷം നിങ്ങൾ ഓപ് ആമ്പുകൾ മാറ്റുകയോ മറ്റ് ചില പാരാമീറ്ററുകൾ മാറ്റുകയോ ചെയ്യണം സൈൻ തരംഗത്തിന്റെ ഗുണനിലവാരം സെഗ്മെന്റുകളുടെ എണ്ണത്തെയും ഈ ഡയോഡ് ഫംഗ്ഷൻ ജനറേറ്റർ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഡയോഡുകളെയും ആശ്രയിച്ചിരിക്കും പര്യവേക്ഷണം ചെയ്യാൻ ഒരു കൂട്ടം പാരാമീറ്ററുകൾ ഉണ്ട് ഇത് തീർത്തും ഗണിതശാസ്ത്രപരമാണ് അന്തിമ ബന്ധങ്ങൾ വളരെ സങ്കീർണ്ണമായതിനാൽ നിങ്ങൾക്ക് ഈ സർക്യൂട്ടിന്റെ ഈ പ്രവർത്തനം സിമുലേഷനിലൂടെ മാത്രം പര്യവേക്ഷണം ചെയ്യാൻ കഴിയും സിമുലേഷനിലൂടെ മാത്രമേ ഈ തരത്തിലുള്ള ഒരു സർക്യൂട്ട് പര്യവേക്ഷണം ചെയ്യാൻ കഴിയൂ എന്ന് ഞങ്ങൾ ഒരു ഉദാഹരണം നൽകി ഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഒരു ലാപ്ടോപ്പിലോ പിസിയിലോ പ്രവർത്തിക്കും ചില യഥാർത്ഥ ജീവിത പ്രക്രിയകളുടെ സിമുലേഷൻ നമുക്ക് പരിഗണിക്കാം സിമുലേഷൻ വിഷ്വൽ ആനിമേറ്റഡ് ആകാം സമയം പുരോഗമിക്കുമ്പോൾ പ്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എളുപ്പത്തിൽ കാണാൻ നിങ്ങളെ അനുവദിക്കുന്നു മാത്രമല്ല ഇത് സംവേദനാത്മകവുമാണ് അതിനാൽ യഥാർത്ഥ നടപടിക്രമം മാറ്റുന്നത് പരിഗണിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വേഗത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും യഥാർത്ഥ ജീവിതത്തേക്കാൾ വേഗത്തിൽ സിമുലേഷന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതിനാൽ ഒരു നടപടിക്രമത്തിൻ്റെ ദിവസങ്ങൾ ആഴ്ചകൾ വർഷങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അനുകരിക്കാൻ കഴിയും നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളുടെയും തീരുമാനങ്ങളുടെയും ദീർഘകാല പരിണതഫലങ്ങൾ വിലയിരുത്താൻ ഇത് നിങ്ങളെ പ്രാപ്തമാക്കുന്നു നമുക്ക് യഥാർത്ഥ ജീവിത പ്രക്രിയ എടുക്കാം പ്രത്യേകിച്ചും ഒരു വലിയ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ നിങ്ങളുടെ വിഭവങ്ങളും ദൈനംദിന ആവശ്യങ്ങളും അല്ലെങ്കിൽ ആഴ്ചതോറുമുള്ള ആവശ്യങ്ങൾ വാങ്ങുന്നിടത്ത് ആകാം ഉപയോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതും ബില്ലിംഗിനായി വരുന്നതും ശേഖരിക്കും നിങ്ങൾക്ക് നിരക്ക് ഈടാക്കുന്ന ഒന്നോ രണ്ടോ കൌണ്ടറുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഉപയോക്താക്കൾക്ക് കാര്യമായ കാലതാമസം അനുഭവപ്പെടും എന്നാൽ കൂടുതൽ കൌണ്ടറുകൾ ഉണ്ടെങ്കിൽ ബില്ലിംഗ് വേഗത്തിലാകും പക്ഷേ ഇതിന് കൂടുതൽ ചിലവ് വരും എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ട ലെവൽ എന്താണ് നിങ്ങൾക്ക് എത്ര കൌണ്ടറുകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കൌണ്ടറുകൾ സമയത്തെയും ഏറ്റവും ഉയർന്ന ആവശ്യകതയെയും ആശ്രയിക്കണോ അത്തരം യഥാർത്ഥ ജീവിത പ്രക്രിയകൾ മികച്ച രീതിയിൽ അനുകരിക്കപ്പെടുന്നു കാരണം ഓരോ ഉപയോക്താവും വ്യത്യസ്തമാണ് അവൻ വാങ്ങുന്ന വ്യത്യസ്ത ഇനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുമായി അയാൾ വരാം അത്തരം വ്യതിയാനങ്ങളെല്ലാം അനുകരിക്കാനും ഒരു ഷോപ്പിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അതേ സാഹചര്യങ്ങൾ പ്രായോഗികമായി സൃഷ്ടിക്കാനും കഴിയും SIMUL8 എന്ന സോഫ്റ്റ്വെയർ ഉപകരണം അവബോധജന്യ സിമുലേഷൻ ഉപയോഗിക്കുന്നു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സമീപനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സിസ്റ്റം നിർമ്മിക്കാനും അത് പരിഷ്ക്കരിക്കാനും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാനും കഴിയും ഒരു യഥാർത്ഥ ജീവിത പ്രക്രിയ അനുകരിക്കാൻ കഴിയും എന്നാൽ ഇവിടെ ഞങ്ങൾ കാലതാമസവും ക്യൂയിംഗ് സംവിധാനങ്ങളും മാത്രമാണ് പരിഗണിക്കുന്നത് നിങ്ങൾ വളരെയധികം സങ്കീർണ്ണമായ ചലനാത്മക ഘടകങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആളുകൾ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായ സങ്കീർണ്ണമായ സിസ്റ്റങ്ങളുടെ അടുത്ത ലെവൽ നിങ്ങൾക്ക് പരിഗണിക്കാം അതിനർത്ഥം അവർ തീരുമാനങ്ങൾ എടുക്കുന്നു അവർ പെരുമാറുന്ന രീതി സിസ്റ്റത്തിന്റെ ഭാഗമായി മാതൃകയാക്കേണ്ടതുണ്ട് ഈ സിസ്റ്റങ്ങളിൽ തീരുമാനമെടുക്കൽ രൂപകൽപ്പന ആളുകൾ സിസ്റ്റങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളായ ബിസിനസ്സ് എന്നിവ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വ്യത്യസ്ത തരം സാഹചര്യങ്ങളുണ്ട് ഏജന്റ് അടിസ്ഥാനമാക്കിയുള്ള മോഡലിംഗ് ഉപയോഗിക്കുന്നതാണ് ഒരു രീതി ഒരു ഏജന്റ് ഒരു തീരുമാനമെടുക്കുന്നു അങ്ങനെയാണെങ്കിൽ താരതമ്യേന നന്നായി സ്ഥാപിതമായ സോഫ്റ്റ്വെയറുകളായ സ്വാം മേസൺ റിപ്പാസ്റ്റ് സ്റ്റാർലോഗോ നെറ്റ്ലോഗോ ഒബിയസ് ഏജന്റ്ഷീറ്റുകൾ എനിലോജിക് എന്നിവ ഏജന്റ് അധിഷ്ഠിത മോഡലിംഗിനും സിമുലേഷനുമുള്ള ഉപകരണങ്ങളാണ് മോഡൽ തീരുമാനമെടുക്കുന്നതിനുള്ള മറ്റൊരു ഉപകരണമാണ് അനലിറ്റിക് ഹൈറാർക്കി പ്രോസസ് തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായ ഒന്നിലധികം കളിക്കാരും അതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ ചോയിസുകൾക്ക് വ്യത്യസ്ത മാനദണ്ഡങ്ങളുണ്ടെങ്കിൽ അത്തരം സംവിധാനങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിന് അനലിറ്റിക് ഹൈറാർക്കി പ്രോസസ് എന്ന ഒരു രീതിശാസ്ത്രമുണ്ട് ആ സ്വഭാവത്തെ മാതൃകയാക്കാൻ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഉപകരണം ഉപയോഗിക്കാം വെൻസിം എന്ന മറ്റൊരു ഉപകരണം ഉണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഡൈനാമിക് സിസ്റ്റങ്ങൾ അനുകരിക്കുന്നതിന് ആ ഉപകരണത്തിന് തുല്യമായ നിരവധി ഉപകരണങ്ങൾ ഉണ്ട് ഇത് പങ്കാളിത്ത മോഡലിംഗ് ഉപയോഗിക്കുന്നു അതിനർത്ഥം അതിലെ എല്ലാ പ്രധാനികളും ഒരുമിച്ച് ഇരുന്ന് സിസ്റ്റത്തെ മാതൃകയാക്കും ഇത് മോഡലിംഗ് സിസ്റ്റങ്ങളും സിമുലേറ്റുകളും സുഗമമാക്കുന്നു അവിടെ ഒന്നിലധികം തീരുമാനമെടുക്കുന്നവർ ഉൾപ്പെടുന്നു വെർച്വൽ റിയാലിറ്റിയും ഗെയിമിംഗും ആളുകളുമായി സിസ്റ്റങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗ്ഗമാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വൈവിധ്യമാർന്ന സിമുലേഷൻ ഉപകരണങ്ങൾ ഉണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു അധ്യാപകൻ എന്തുചെയ്യണം അവന്റെ അല്ലെങ്കിൽ അവളുടെ കോഴ്സിന് അനുയോജ്യമായ ഒരു സിമുലേഷൻ ഉപകരണം ഇൻസ്ട്രക്ടർമാർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും സിമുലേഷൻ ഉപകരണം ഉപയോഗിക്കുന്നതിന് ക്ലാസ് മുറിയിൽ ഒരു എൽസിഡി പ്രൊജക്ടർ ആവശ്യമാണ് വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ ക്ലാസ് മുറിയിലെ സംവിധാനങ്ങളെ ചലനാത്മകമായി അനുകരിക്കാൻ അധ്യാപകന് കഴിയണം അത്തരം സൌകര്യങ്ങൾ വളരെ എളുപ്പമാണ് കൂടാതെ സൌകര്യങ്ങൾ ഇല്ലെങ്കിൽ കോളേജ് അത്തരം സംവിധാനങ്ങൾ സൃഷ്ടിക്കണം അവിടെ അധ്യാപകർക്ക് ക്ലാസ് മുറിയിൽ നിന്ന് പര്യവേക്ഷണം നടത്താം നിങ്ങൾ ഒരു കോഴ്സിലെ ചില സമവാക്യങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിൽ ചില പാരാമീറ്ററുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് സിമുലേഷന് കാണിക്കാൻ കഴിയും മോഡലിംഗിന് മുമ്പ് സിമുലേഷൻ ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുകയും അടിസ്ഥാന ആശയങ്ങളും നടപടിക്രമങ്ങളും വിശദീകരിക്കുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികളെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു നമുക്ക് ഒരു FLL ന്റെ ഉദാഹരണം നോക്കാം FLL ന്റെ എല്ലാ ഘടകങ്ങളും അവയുടെ മോഡലിംഗും ഞാൻ ഏതുതരം ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് സംസാരിക്കുന്നതിന് മുമ്പാണ് എനിക്ക് ആദ്യം ഒരു FLL അനുകരിക്കാനും അതിന്റെ പ്രവർത്തനം കൃത്യമായി വിശദീകരിക്കാനും പോകുന്നത് ഒരു FLL ന് ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് തുല്യമായ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അത് വളരെ ലളിതമായി കാണപ്പെടുന്നു പക്ഷേ ഇതിന് ഒരു ഫിൽട്ടറായി പ്രവർത്തിക്കാനും കഴിയും ഉദാഹരണത്തിന് ഞാൻ ഒരു FLL ൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസിയിൽ വളരെയധികം നോയസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ശുദ്ധ സിഗ്നൽ നൽകുന്നു ഇത് ഇൻപുട്ട് ഫേസിലേക്ക് ലോക്കുചെയ്യുന്നു ഇൻപുട്ട് ഫ്രീക്വൻസി മാറ്റുന്നതിന്റെ ഫലം എനിക്ക് പര്യവേക്ഷണം ചെയ്യാനാകും ഒരു FLLന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അതിന്റെ മോഡലിംഗിലേക്കും ഡിസൈനിലേക്കും പോകുകയുള്ളൂ വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ പ്രചോദിതരാണ് കൂടാതെ ഒരു FLL ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ഉത്സുകരാണ് ഒരു അധ്യാപകനെന്ന നിലയിൽ നിങ്ങൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നു അല്ലാതെ മറ്റൊരു വഴിയല്ല ഒരാൾക്ക് പ്രക്രിയയെ നേരെ തിരിച്ചാക്കാ൯ കഴിയും പരിഗണനയിലുള്ള സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ സിമുലേഷൻ വളരെയധികം സഹായിക്കുന്നു നിങ്ങൾ ഒരു FLL എടുക്കുകയാണെങ്കിൽ ഡയോഡ് ഫംഗ്ഷൻ ജനറേറ്ററിൽ ഞാൻ കൂടുതൽ സെഗ്മെന്റുകൾ ചേർത്താൽ എന്ത് സംഭവിക്കും പരിഗണനയിലുള്ള സിസ്റ്റം മനസിലാക്കാൻ സിമുലേഷൻ ചെയ്യാൻ കഴിയുമെങ്കിലോ സിമുലേഷൻ ഉപകരണങ്ങളുടെ ഓപ്പൺ സോഴ്സ് വിദ്യാർത്ഥി പതിപ്പുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും ചില സിമുലേഷൻ ഉപകരണങ്ങൾ വളരെ ചെലവേറിയതാകാം പക്ഷേ ഓപ്പൺ സോഴ്സും വിദ്യാർത്ഥി പതിപ്പുകളും ലഭ്യമാണ് അവ ഞങ്ങളുടെ കോഴ്സുകളിൽ സാധാരണയായി കൈകാര്യം ചെയ്യുന്ന ചെറിയ സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണ് ഒരു പ്രോജക്റ്റ് മോഡിൽ നിങ്ങൾക്ക് അനുകരിക്കണമെങ്കിൽ കൂടുതൽ വിപുലമായ സിമുലേഷൻ ഉപകരണങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കണം സിമുലേഷൻ ഉപകരണങ്ങൾ പഠിക്കാനും ക്ലാസിൽ ഉപയോഗിക്കാനും അധ്യാപകർ പ്രത്യേക ശ്രമം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായി ശുപാർശ ചെയ്യുന്നു ഇത് വളരെ ശക്തമായ ഒരു പ്രബോധന രീതിയാണ് അധ്യാപക൯ അവന്റെ കോഴ്സിന് അനുയോജ്യമായ ഒരു ഓപ്പൺ സോഴ്സ് ഉപകരണം തിരഞ്ഞെടുത്ത് ക്ലാസ് റൂം നിർദ്ദേശങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അഭ്യാസം ഫലപ്രദവും ആകർഷകവുമായ നിർദ്ദേശങ്ങൾക്കായി നിങ്ങളുടെ കോഴ്സിൽ സിമുലേഷൻ എങ്ങനെ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചു എന്നതിന് ഒരു ഉദാഹരണം നൽകുക അതിനർത്ഥം വിദ്യാർത്ഥികൾ നേരിട്ട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും കോഴ്സ് ഫലങ്ങൾക്കോ യോഗ്യതയ്ക്കോ ഉള്ള ഉപകരണമായി നിങ്ങൾ എങ്ങനെ സിമുലേഷൻ ഉപയോഗിക്കുന്നു ഈ പ്രത്യേക വിലാസത്തിൽ അഭ്യാസത്തിന്റെ ഫലം പങ്കിട്ടതിന് നന്ദി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി